ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പ്രോജക്ട് മാനേജ്മെൻറ്ൻറെ ജീവചക്രവും സോഫ്റ്റ്വെയർ വികസനത്തിന് ജീവചക്രവും ആയിരുന്നു ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് കൂടാതെ നമ്മൾ പറയുകയുണ്ടായി പ്രോജക്റ്റ് മാനേജ്മെൻറ് പ്രവർത്തനം തുടങ്ങുന്നതിനുമുമ്പ് സോഫ്റ്റ്വെയർ വികസനത്തിന് പ്രവർത്തനം തുടങ്ങുമെന്ന് ഇനി ഇത് വച്ച് നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാം ഈ പ്രഭാഷണത്തിൽ നമ്മൾ രണ്ട് പ്രധാന ആശയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻറ് മാനദണ്ഡങ്ങളും ജീവചക്ര മാതൃകകളും ഒരു സാധാരണ പ്രോജക്ട് ജീവിത ചക്രത്തിൽ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകളും ആരംഭിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറിനെ ആവശ്യകതയോടെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരാൾക്ക് ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ആവശ്യകത അനുഭവപ്പെടുന്നു അതിൻറെ അടിസ്ഥാനത്തിൽ പ്രോജക്ട് പ്രൊപ്പോസൽ എഴുതി അത് ഉന്നത മാനേജ്മെൻറ് അംഗീകരിക്കുന്നു പ്രോജക്റ്റ് മാനേജരെ നിയമിക്കുകയും അത് പ്രോജക്ട് തുടക്കമിടുകയും പ്രോജക്റ്റിനു പ്രോജക്റ്റ് മാനേജരെ നിയമിക്കുകയും ചെയ്തതിനുശേഷം പ്രോജക്റ്റ് ആസൂത്രണം ചെയ്തു കൊണ്ടാണ് പ്രോജക്ട് ജീവിതചക്രം ആരംഭിക്കുന്നത് പദ്ധതിയുടെ വിവിധതരം പദ്ധതികൾ ഷെഡ്യൂൾ കോൺഫിഗറേഷൻ മാനേജ്മെൻറ് റിസ്ക് മാനേജ്മെൻറ് തുടങ്ങിയവ തയ്യാറാക്കുന്നു പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പദ്ധതി വികസന ജീവിതചക്രം ആരംഭിക്കുകയും അത് പദ്ധതി നിർവഹിക്കുകയും ചെയ്യുന്നു പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് പദ്ധതി മാനേജർ പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതിപ്രകാരം മുന്നോട്ടുപോകാൻ വികസന സംഘത്തെ നിർദ്ദേശിക്കുന്നു പദ്ധതി പുരോഗമിക്കുമ്പോൾ പദ്ധതിയിൽ നിന്ന് നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടാകാം ഇതിനായി പ്രോജക്റ്റ് മാനേജർ ചില നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരുപക്ഷേ പദ്ധതി പ്രകാരം പദ്ധതി പുരോഗമിക്കാത്തതിന്റെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം പ്രോജക്റ്റ് മാനേജർ തടസ്സങ്ങൾ നീക്കാൻ പ്രവർത്തിക്കുന്നു സാങ്കേതിക ഉദ്യോഗസ്ഥരിൽ ഒരു കുറവുണ്ടാകാം അല്ലെങ്കിൽ ഉപകരണങ്ങളിൽ കുറവുണ്ടാകാം പ്രോജക്റ്റ് മാനേജർ തടസ്സങ്ങൾ മുൻകൂട്ടി നീക്കംചെയ്യുന്നു അതിനാൽ പദ്ധതിപ്രകാരം പദ്ധതി മുന്നോട്ടു പോകുന്നു പക്ഷേ പ്രോജക്റ്റ് മാനേജർക്ക് പദ്ധതി പുനർനിർമ്മിക്കേണ്ടിവരാം കാരണം അവർക്കിടയിലും കാലതാമസം ഉണ്ടാകാം അല്ലെങ്കിൽ പദ്ധതിയുടെ ചിലഭാഗങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പൂർത്തിയാക്കാം പ്രോജക്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് തീർക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ വിശദമായി പരിശോധിക്കും പ്രോജക്ട് ജീവിതചക്ര സമയത്ത് പ്രോജക്ട് മാനേജർ പ്രൊജക്റ്റ് മാനേജ്മെൻറ് ക്രിയകൾ നടപ്പിലാക്കുന്നു എന്നെ ആവർത്തിക്കാൻ അനുവദിക്കൂ പ്രോജക്ട് ജീവിത ചക്രത്തിൽ പ്രോജക്ട് മാനേജർ പ്രോജക്ട് മാനേജ്മെൻറ് പ്രക്രിയകൾ നടത്തുന്നു പ്രോജക്റ്റ് മാനേജ്മെൻറ് പ്രക്രിയകൾ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും ബന്ധപ്പെട്ടതാണ് ഇവിടത്തെ പ്രവർത്തനങ്ങൾ പ്രോജക്ട് മാനേജർ പ്രോജക്റ്റിനെ ആസൂത്രണം നിർവഹിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ടീമിനെ നയിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു പ്രോജക്റ്റ് മാനേജർ നിയന്ത്രണങ്ങൾ തടസ്സങ്ങൾ നീക്കംചെയ്യുന്നു അങ്ങനെ പദ്ധതിപ്രകാരം പദ്ധതി മുന്നോട്ടു പോകുന്നു വിപരീതമായി ടീം ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ നടത്തുന്നു പ്രോജക്ട് ഒരുക്കങ്ങൾ വ്യക്തമാക്കുന്നതും സൃഷ്ടിക്കുന്നതും അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകളാണ് അവ ആവശ്യപ്പെട്ട് നിർദ്ദിഷ്ട പ്രക്രിയ ഡിസൈൻ പ്രോസസ്സ് കോഡിങ് പ്രോസസ്സ് ടെസ്റ്റിംഗ് പ്രോസസ്സ് തുടങ്ങിയവ ചെയ്യാം അതിനാൽ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ കൾ എന്ന നമ്മൾ വിളിക്കുന്നുവ ഇവ ഡെവലപ്മെൻറ് ടീം നടപ്പിലാക്കുന്നു അതേസമയം പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് മാനേജ്മെൻറ്പ്രക്രിയകൾ നടത്തുന്നു പ്രോജക്റ്റ് മാനേജ്മെൻറ് പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോജക്ട് മാനേജ്മെൻറ് ക്രിയകൾ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത് ഉൾക്കൊള്ളുന്നു ഇവിടെ പ്രോജക്ട് മാനേജർ ബിസിനസ് കേസും പ്രോജക്റ്റ് ചാർട്ടറും എഴുതുന്നു നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ബിസിനസ് കേസും പ്രോജക്ട് ചാർട്ടറും കാണും പ്രോജക്റ്റ് മാനേജർ വർക്ക് ബ്രേക്ക് ഡൌൺ സ്ട്രക്ചർ പൂർത്തിയാക്കുകയും പ്രൊജക്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ആസൂത്രണ പ്രക്രിയകളും നടത്തുന്നു തുടർന്ന് പ്രോജക്റ്റ് മാനേജർ നിർവഹണ പ്രക്രിയകൾ നടപ്പിലാക്കുന്നു ഇത് അടിസ്ഥാനപരമായി പദ്ധതിയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പ്രവർത്തി പൂർത്തിയാക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നു പക്ഷേ നിർവഹണ പ്രക്രിയയിൽ പദ്ധതിയിൽനിന്ന് വ്യതിചലനങ്ങൾ ഉണ്ടാകാം പ്രോജക്ട് മാനേജർ പരിശോധിക്കുന്നിടത് പദ്ധതിപ്രകാരം പദ്ധതി മുന്നോട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ പദ്ധതിയിൽനിന്ന് വ്യതിചലനങ്ങൾ ഉണ്ടോ വ്യതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രോജക്റ്റ് മാനേജർ പുരോഗതിയുമായി പൊരുത്തപ്പെടുന്ന തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടോ എന്ന് പ്രോജക്റ്റ് മാനേജർ പരിശോധിക്കുന്ന നിരീക്ഷണം നിയന്ത്രണ പ്രക്രിയകൾ പ്രോജക്ട് മാനേജർ നടത്തേണ്ടതുണ്ട് അവസാനമായി പ്രോജക്ട് മാനേജർ സമാപന പ്രക്രിയ നടത്തേണ്ടതുണ്ട് അവിടെ ക്ലോസിങ് ഡോക്യുമെന്റ് സൃഷ്ടിക്കുകയും ഉപഭോക്താവ് ഒടുവിൽ ഫോർമൽ പ്രോജക്റ്റ് സ്വീകാര്യത നടക്കുകയും ചെയ്യുന്നു പ്രോജക്റ്റ് മാനേജ്മെൻറ് പ്രക്രിയകൾ നടപ്പിലാക്കുന്നതിന് പ്രോജക്ട് മാനേജർ നിരവധി മാർഗനിർദേശങ്ങൾ ഉണ്ട് പ്രോജക്ട് മാനേജ്മെൻറ് മാനദണ്ഡങ്ങളിൽ പ്രധാനമായി രണ്ട് തരം ഉണ്ട് ഒന്ന് ഓഫ് ദി ഷെൽഫ് പ്രൊജക്റ്റ് മാനേജ്മെൻറ് മാനദണ്ഡങ്ങൾ ഇവ പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇവിടെ ജനപ്രിയമായത് PMBOK ആണ് അതായത് പ്രോജക്റ്റ് മാനേജർ ബുക്ക് ഓഫ് നോളജ് പ്രിൻസ്2 കൂടാതെ ഐ എസ് ഓ 21500 എന്നിവയും മറ്റ് ചില പ്രധാന ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട് മറുവശത്ത് ഒരു ഓർഗനൈസേഷന് ഓഫ് ദി ഷെൽഫ് സ്റ്റാൻഡേർഡ് മായി കൊടുക്കുമ്പോൾ അല്പം വ്യത്യസ്തമായ പ്രോജക്ട് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കാം അവ വ്യത്യസ്ത മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർഷങ്ങൾ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ എടുക്കുകയും ചെയ്യാം ഒപ്പം അവർക്ക് നിർദ്ദിഷ്ട ഹൌസ് പ്രോജക്ട് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരിക്കാം ഓർഗനൈസേഷൻ മാനദണ്ഡം പിന്തുടരുന്നു PMBOK PRINCE2 ISO 21500 ൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുന്നത് നല്ല ആശയം ആയിരിക്കാം നമ്മളുടെ ചർച്ചയിൽ നമ്മൾ ഒരു മാനദണ്ഡത്തിലും സ്വയം പരിമിതപ്പെടുത്തില്ല എന്നാൽ ഈ കോഴ്സിലെ നമ്മളുടെ ചർച്ച എല്ലാവരിലും ഉപയോഗിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് കൂടുതലായിരിക്കും ഈ മാനദണ്ഡങ്ങൾ PRINCE2 ഒരു ജനപ്രിയ പ്രോജക്ട് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡ് ആണ് PRINCE എന്നത് പ്രോജക്റ്റ് IN നിയന്ത്രിത പരിസ്ഥിതികളെ സൂചിപ്പിക്കുന്നു ഇത് സോഫ്റ്റ്വെയർ വികസനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല പക്ഷേ PRINCE1 ഐടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മെൻറ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു കൂടാതെ PRINCE2 കൂടുതൽ ജനറിക് പ്രോജക്ട് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡ് ആയി മാറുന്നു വികസിപ്പിച്ചെടുത്തത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കോമേഴ്സ് ഗവൺമെൻറ്ആണ് ഇത് യുണൈറ്റഡ് കിങ്ഡത്തിൽ വളരെ പ്രചാരത്തിൽ ഉണ്ട് ഇത് പ്രോസസ് നയിക്കുന്ന സമീപനമാണ് ചെറുതും വലുതുമായ പ്രോജക്ട് വിൽക്കാൻ ഇത് ഉപയോഗിച്ചു PRINCE2 ഏഴ് പ്രക്രിയയകൾ ഉണ്ട് പ്രോജക്ടുകൾ ആരംഭിക്കുന്ന പ്രക്രിയകൾ പ്രക്രിയകൾ ആരംഭിക്കുക പ്രക്രിയകൾ നയിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക ഒരു ഘട്ടത്തിൽ അതിർത്തി കൈകാര്യം ചെയ്യുക ഒരു ഘട്ടം നിയന്ത്രിക്കുക ഉൽപന്ന വിതരണം കൈകാര്യം ചെയ്യുക നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് പ്രോസസ്സുകൾ ചിത്രീകൃതമായി അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടാതെ രണ്ടു പ്രധാന പ്രോസസ്സുകൾ അത് പ്രോജക്ട് ഉടനീളം പ്രോജക്ടിനിനെ നേതൃത്വം കൊടുക്കുന്നതും അത് അടിസ്ഥാനപരമായി പ്രോജക്റ്റിൻറെ നിർവഹണമാണ് തുടർന്ന് ആസൂത്രണം മുഴുവൻ തുടരുന്നു കാരണം ഒരിക്കൽ പ്രാരംഭ ആസൂത്രണം തയ്യാറായിക്കഴിഞ്ഞാൽ നിരന്തരം അത് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും കൂടാതെ ആസൂത്രണത്തിലെ അനുസരിച്ചായിരിക്കും അത് ഒരിക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രാരംഭ ആസൂത്രണം പൂർത്തിയായി പ്രോജക്ട് ആരംഭിക്കുകയും പ്രോജക്ട് വിവിധ ഘട്ടങ്ങൾ വിധേയമാക്കുകയും ഓരോ ഘട്ടത്തിലും പ്രോജക്റ്റ് മാനേജർ പ്രവർത്തനങ്ങൾ നയിക്കുകയും പ്രോജക്ട് ടീം പ്രവർത്തനങ്ങൾ നടത്തുകയും ഇവിടെ പ്രോജക്ട് മാനേജർ ഓരോ ഘട്ടവും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു അവസാനഘട്ടത്തിൽ പുതിയ ഘട്ടം ആരംഭിക്കുന്നുണ്ട് അതിനാൽ ഇതിനെ സ്റ്റേജ് ബൌണ്ടറി മാനേജിങ് എന്ന് വിളിക്കുന്നു കൂടാതെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയതിനുശേഷം ഓരോന്നായി ഓരോ ഘട്ടങ്ങളും ഇവിടെ ഏറ്റെടുക്കുകയും എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സമാപന പ്രക്രിയകൾ പ്രോജക്റ്റ് മാനേജർ ഏറ്റെടുക്കും ഇവിടെയുള്ള ISO 21500 ൻറെ ജീവചക്രം നമ്മൾക്ക് പ്രാരംഭ പ്രവൃത്തികൾ ആയിട്ടാണ് ഉള്ളത് ആസൂത്രണ പ്രക്രിയകൾ അല്ലെങ്കിൽ സംവിധാനം അല്ലെങ്കിൽ നിർവ്വഹണ പ്രക്രിയകൾ ഉണ്ട് ഒടുവിൽ സമാപന ക്രിയകളും കൂടാതെ നിയന്ത്രണ പ്രക്രിയകൾ പുറംതള്ളുകയും ചെയ്യുന്നത് അത് പ്രോജക്ട് മാനേജർ ആണ് PMBOK വളരെ പ്രചാരമുള്ള പ്രോജക്റ്റ് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡ് ആണ് പ്രോജക്ട് മാനേജ്മെൻറ് ബോഡി ഓഫ് നോളജ് ആണ് ഇത് വിവിധ പ്രോജക്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രബലമായ പ്രോജക്റ്റ് മാനേജ്മെൻറ് സ്റ്റാൻഡേർഡ് ആണ് PMBOK അടിസ്ഥാനപരമായി നിരവധി പദങ്ങളും മാർഗനിർദേശങ്ങളും ഉൾകൊള്ളുന്നു ഇത് ഒരു പുസ്തകത്തിൻറെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രോജക്റ്റ് മാനേജ്മെൻറ് ബുക്ക് ഓഫ് നോളജ് PMBOK ഗൈഡ് ഇത് പ്രോജക്ട് പ്രസിദ്ധീകരിക്കുന്നു മാനേജ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും PMI യും ചെയ്യുന്നു ഈ ഗൈഡും PMI വാഗ്ദാനം ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ആയി തയ്യാറെടുക്കുന്നതിന് ഒരു പിന്തുണയായി ഉപയോഗിക്കുന്നു ഈ വിവിധ പ്രോസസ് ഗ്രൂപ്പുകളുണ്ട് ഓരോ പ്രോസസ് ഗ്രൂപ്പിലും നിരവധി പ്രോസസുകൾ അടങ്ങിയിരിക്കുന്നു സമാരംഭിക്കുന്ന പ്രോസസ്ഗ്രൂപ്പുണ്ട് പക്ഷേ പ്രോജക്ട് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ പ്രോജക്ട് മാനേജർ നടത്തുന്നു കൂടാതെ പ്രോജക്ട് ആരംഭിക്കുമ്പോൾ ആസൂത്രണ പ്രക്രിയകൾ പ്രോജക്ട് മാനേജർ നടത്തുന്നു പ്രാരംഭ പ്ലാൻ തയ്യാറാക്കി പരിഷ്കരിക്കുന്നു നിർവഹണ പ്രക്രിയകൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോജക്റ്റ് മാനേജർ പ്രോജക്ട് ടീമിനെ നിർദ്ദേശിക്കുകയും അതേസമയം നിയന്ത്രണ പ്രക്രിയകൾ നടത്തുകയും ചെയ്യുന്നു പ്ലാനിൽ നിന്ന് വ്യതിചലങ്ങൾ ഉണ്ടെങ്കിൽ നിരീക്ഷിച്ച് തുടർന്ന് നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളുകയും പ്രോജക്റ്റ് ആക്കി കഴിഞ്ഞാൽ സമാപന പ്രക്രിയകൾ നടത്തുകയും ചെയ്യുന്നു അതിനാൽ PMBOK ലെ 5 പ്രധാന പ്രോസസ് ഗ്രൂപ്പുകളാണ് ഇവ പ്രാരംഭ പ്രക്രിയകൾ ആസൂത്രണ പ്രക്രിയകൾ നിയന്ത്രണ പ്രക്രിയകൾ നിർവഹണ പ്രക്രിയകൾ സമാപന പ്രക്രിയകൾ ഈ വ്യത്യസ്ത പ്രോജക്ട് മാനേജ്മെൻറ് മാനദണ്ഡങ്ങളിൽ നമുക്ക് കാണാനാകുന്നത് പോലെ പലതും സാധാരണമാണ് പ്രക്രിയകൾ സമാരംഭം ആസൂത്രണം നിർവഹണം അല്ലെങ്കിൽ സംവിധാനം നിരീക്ഷിക്കൽ ഒടുവിൽ സമാപന പ്രക്രിയകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രോജക്ട് മാനേജ്മെൻറ് സ്റ്റാൻഡിലേക്ക് നമ്മളെ സ്വയം പരിമിതപ്പെടുത്തുകയില്ല എന്നാൽ ഈ വിവിധ പ്രോജക്ട് മാനേജ്മെൻറ് മാനദണ്ഡങ്ങളിൽ ഉടനീളം പ്രോജക്ട് മാനേജിങ് മാനേജ്മെൻറ് പ്രക്രിയകൾ നമ്മൾ നോക്കുന്നു പ്രോജക്ട് ജീവിത ചക്രത്തിൽ ആദ്യം പ്രോജക്ട് മാനേജർ നടപ്പിലാക്കുന്ന പ്രക്രിയയാണ് ഇത് ആരംഭിക്കുന്നത് ഈ പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം പ്രോജക്റ്റ് ആരംഭിക്കുക എന്നതാണ് ഈ പ്രാരംഭ ക്രിയകളുടെ ഔട്പുട്ടുകൾ പ്രോജക്റ്റ് മാനേജർ തിരഞ്ഞെടുക്കപ്പെടുന്നു പ്രധാന സ്റ്റേറ്റ്ഹോൾഡറിനെ തിരിച്ചറിയുകയും പ്രോജക്ട് ചാർട്ടർ പൂർത്തിയാക്കുകയും ചെയ്യുന്നു പ്രോജക്റ്റ് ആസൂത്രണ പ്രക്രിയകൾ ഇവിടെ ഔട്ട്പുട്ടിൽ വർക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ ഉം പ്രോജക്റ്റ് ഷെഡ്യൂൾ ഗാണ്ട് ചാർട്ടിന്റെ രൂപത്തിലും കൂടാതെ എല്ലാ ആശ്രയത്വവും വിഭവങ്ങളെയും മുൻഗണന അപകട സാധ്യതകളുടെ പട്ടികയും തിരിച്ചറിയൽ രണ്ട് ജനപ്രിയ പ്രോജക്ട് മാനേജ്മെൻറ് മാനദണ്ഡങ്ങൾ ആയ PRINCE PMBOK എന്നിവ താരതമ്യം ചെയ്താൽ PRINCE ൻറെ ഉൽഭവം യുണൈറ്റഡ് കിങ്ഡം ആണെന്നും PMBOK ഉൽഭവം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്നും നമുക്ക് കാണാം കഴിയും ഇവിടെ PRINCE2 നിയന്ത്രിക്കുന്നത് അസോസിയേഷൻ ഫോർ പ്രൊജക്റ്റ് മാനേജ്മെൻറ് ഗ്രൂപ്പായ APMG ആണ് PMBOK നിയന്ത്രിക്കുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇവ രണ്ടും ലോകമെമ്പാടും വളരെ പ്രചാരത്തിലുണ്ട് പക്ഷേ PMBOK PRINCE 2 നേക്കാൾ വ്യാപകമായി ഉപയോഗിക്കുന്നു PRINCE2 എന്നത് അത് നമ്മൾ കണ്ട ഒരു പ്രോസസ്സ് അധിഷ്ഠിത രീതിയാണ് അതേസമയം PMBOK എന്നത് അറിവിൻറെ ഒരു ഡോക്യൂമെന്റഷൻ ആണ് അത് കുറുപ്പടി ഇല്ലാത്തതാണ് കൂടാതെ പ്രോജക്റ്റ് മാനേജർക്ക് സ്വന്തംപ്രക്രിയകൾ സ്വീകരിക്കരുതെന്ന് വഴക്കമുണ്ട് പക്ഷേ ഇവ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കായി പ്രവർത്തിക്കുന്നു PRINCE2 കൂടുതലും യുകെയിൽ ആണ് ഉപയോഗിക്കുന്നത് ലോകമെമ്പാടും PMBOK ഉപയോഗിക്കുന്നു ലോകമെമ്പാടുമുള്ള 75 ശതമാനം പ്രോജക്റ്റുകളും PMBOK ഉപയോഗിക്കുന്നു ഇപ്പോൾ നമുക്ക് ജീവചക്രം മാതൃകകൾ നോക്കാം കാരണം പ്രോജക്ട് മാനേജർ പ്രോജക്റ്റ് മാനേജ്മെൻറ് നിർവഹണം ചെയ്യുന്നു വിവിധ ഘട്ടങ്ങളിൽ പ്രോജക്ട് ടീം വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനാൽ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന നിലയിൽ വിവിധ ജീവിതചക്രാ മാതൃകകളെ കുറിച്ചും വികസനം തുടരുന്ന ഘട്ടങ്ങൾ എന്താണെന്നും ഘട്ട അതിരുകൾ മുതലായവയെകുറിച്ചും നമുക്ക് വ്യക്തമായി ഇരിക്കണം ഇവിടെ നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകും അവബോധജന്യമായി ഒരു സോഫ്റ്റ്വെയർ ജീവിത ചക്രത്തിൽ ആദ്യം ആരെങ്കിലും സോഫ്റ്റ്വെയറിനെ ആവശ്യകതയെ കുറിച്ച് ചിന്തിക്കുകയും തുടർന്ന് പ്രോജക്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു അത് ഡിസൈൻ ചെയ്യുകയും കോഡ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും അവസാനം ടെലിവെർ ചെയ്യുകയും ചെയ്യുന്നു ഒരിക്കൽ ടെലിവെർ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്താൽ മൈന്റൈൻ ആവശ്യമാണ് അത് വിധേയമാകുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനാൽ വർഷങ്ങളോളം മൈന്റൈൻ നടത്തുന്നത് അറ്റകുറ്റപ്പണികൾ തുടരുകയും ഒടുവിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതിരുന്നത് വിരമിക്കുകയും ചെയ്യും അതിനാൽ സോഫ്റ്റ്വെയർ ഡെവലൊപ്പിന്റെ അവബോധജന്യമായ മാതൃകയാണിത് സങ്കൽപിക്കുക വൃക്തമാകുക രൂപകൽപന ചെയ്യുക കോഡ് ചെയ്യുക പരീക്ഷിക്കുക വിതരണം ചെയ്യുക പരിപാലിക്കുക വിരമിക്കുക സോഫ്റ്റ്വെയർ ജീവിതചക്രത്തിൻറെ ഈ ആശപരമായ മാതൃകയെ അടിസ്ഥാനമാക്കി വിവിധ ജീവചക്ര മാതൃകകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ പ്രവർത്തനങ്ങളുടെ ക്രമം വ്യത്യാസപ്പെടുന്നു ജീവചക്ര മോഡലിനെ പ്രോസസ് മോഡൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്ജീവചക്ര മോഡൽ എന്നും വിളിക്കുന്നു ഇത് സോഫ്റ്റ്വെയർ ജീവ ചക്രത്തിലെ ഒരു ഡയഗ്രമാറ്റിക് പ്രാതിനിധ്യമാണ് ഒപ്പം ഇത് ഒരു വിവരണത്തോടോപ്പമുണ്ട് ഉൽപ്പന്ന വികസന സമയത്ത് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സോഫ്റ്റ്വെയർ ജീവചക്രം മാതൃക പ്രധാനമായും തിരിച്ചറിയുന്നു ഇത് പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു മുൻഗണനാക്രമം സ്ഥാപിക്കുകയും ജീവചക്രം ഘട്ടങ്ങളായി വിഭജിക്കുകയും ചെയ്യുന്നു ഓരോ ഘട്ടത്തിലും നിരവധി ഉപപ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു ഡിസൈൻ ഘട്ടത്തിൽ ഘടനാപരമായ രൂപകല്പന ഘടനാപരമായ വിശകലനം ഡിസൈൻ അവലോകനം തുടങ്ങിയവ ഉൾക്കൊള്ളുന്നു വളരെ ചെറിയ പ്രോജക്റ്റുകൾകായി വിദ്യാർത്ഥി അസൈമെൻറ് എന്ന് പറയട്ടെ വിദ്യാർത്ഥി അറിയാതെ ഒരു ബിൽഡ് ആൻഡ് ഫിക്സ് മോഡലിനെ പിന്തുടരുന്നു ഇത് ഒരു യഥാർഥമായ ജീവിതചക്ര മാതൃകയല്ല പക്ഷേ ഇത് ബോധപൂർവ്വം വിദ്യാർഥിക്ക് വരുന്നു ഒരു വിദ്യാർത്ഥിയുടെ അസൈമെൻറ് പോലുള്ള ഒരു ചെറിയ പ്രോജക്ടുകൾക്ക് ഇത് വിജയം നൽകുന്നു അവിടെ പ്രശ്നം ഒരു വ്യക്തിയുടെ പിടിയിലാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ പ്രവർത്തിക്കുന്നു പേര് പറയുന്നതുപോലെ ഇവിടെ പ്രോജക്ടിനായി പ്രാരംഭ പണിതുയർത്തൽ കോഡ് എഴുതുകതുടർന്ന് പരീക്ഷിക്കുക കോഡ് വിജയിക്കാത്ത കാലത്തോളം പരിഹാരങ്ങൾ നടപ്പിലാക്കുക വീണ്ടും ടെസ്റ്റ് നടപ്പിലാക്കുക വീണ്ടും എല്ലാ പരിശോധനകളും വിജയിക്കുന്നത് വരെ പരിശോധിക്കുക ഇതിനെ എക്സോപ്ലോറേറ്ററി മാതൃക എന്നു വിളിക്കുന്നു ഇവിടെ പ്രശ്നം വളരെ ചെറുതാണ് ഒപ്പം ഡെവലപ്പർക്ക് തോന്നുന്ന ഏതൊരു പ്രവർത്തനവും ഏറ്റെടുക്കാനുള്ള വഴക്കവും സ്വാതന്ത്ര്യവുമുണ്ട് അതിനാൽ ബിൽഡ് ഫിക്സ് മോഡലിൽ ധാരാളം ഫ്ലെക്സിബിലിറ്റി കൾ ഉണ്ട് ഉദാഹരണത്തിന് ഡെവലപ്പർ ആദ്യം കോഡ് ചെയ്യാം തുടർന്ന് പരീക്ഷിക്കാം കുറച്ച് ഡിസൈൻ ചെയ്യാം തുടർന്ന് ടെസ്റ്റ് ചെയ്യുക പരിഹരിക്കുക തുടങ്ങിയവ അല്ലെങ്കിൽ എൻറെ കോഡ് തുടർന്ന് കുറച്ച് ഡിസൈൻ ചെയ്യുക ടെസ്റ്റ് ചെയ്യുക കോഡ് മാറ്റുക തുടങ്ങിയവ ചെയ്യാം തുടർന്ന് കോഡ് ഡിസൈൻ ടെസ്റ്റ് തുടങ്ങിയവ അതിനാൽ ഈ മോഡൽ ബിൽ ആൻഡ് ഫിക്സ് മോഡൽ വളരെ അനൌപചാരിക മോഡലാണ് ഇത് വിദ്യാർത്ഥികളുടെ അസൈമെൻറ് പോലെ തുച്ഛമായ പ്രോജക്ടുകൾക്ക് മാത്രം അനുയോജ്യമാണ് ഒരു ടീം വികസനം നടത്തുമ്പോൾ ഔപചാരിക നടപടി മാതൃകയാണ് പിന്തുടരേണ്ടത് ടീം അംഗങ്ങൾക്കിടയിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം എന്താണ് പ്രവർത്തനങ്ങൾ എന്ത് പ്രവർത്തനത്തിന് ശേഷം എന്തു ചെയ്യണം ആരാണ് ചെയ്യേണ്ടത് അങ്ങിനെ അല്ലാത്തപക്ഷം അത് കുഴപ്പത്തിലേക്ക് പ്രോജക്ട് പരാജയത്തിലേക്ക് നയിക്കും നിസ്സാരമല്ലാത്ത ഒരു പ്രോജക്ട് വികസിപ്പിക്കുന്നതിന് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ ഉപയോഗിക്കുന്നത് പിന്നീട് ടീം ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഒരുപക്ഷേ ഡെവലപ്പർ മാരിൽ ഒരാൾ കോഡ് എഴുതാൻ തുടങ്ങും മറ്റൊരാൾ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കും മൂന്നാമത്തേത് ടെസ്റ്റ് പ്രമാണം എഴുതും മറ്റൊരാൾ ആദ്യം തൻറെ ഭാഗത്തിനായി ഐ ഓ നിർവചിച്ചേക്കാം ഈ രീതിയിൽ പദ്ധതി വിജയിക്കില്ല വളരെയധികം കാലതാമസം ഉണ്ടാകും കോഡിന്റെ മോശം ഗുണനിലവാരം പുറത്തുവരും നിഷ്ക്രിയത്വം ഉണ്ടാകും ചെലവ് വർദ്ധിക്കും ഇവിടെ മോശം ഗുണനിലവാരമുള്ള കോഡ് പുറത്തുവരും അതിനാൽ ബിൽഡ് ഫിസിക്സ് മോഡൽ പോലുള്ള അനൌപചാരിക പ്രൊജക്റ്റ് മോഡൽ നിസ്സാരമല്ലാത്ത പ്രോജക്ട് ജോലികൾക്ക് അനുയോജ്യമല്ല വ്യത്യസ്ത പ്രോജക്ട് ജീവചരിത്ര മോഡലുകൾ നോക്കുന്നതിനു മുമ്പ് ഘട്ടം പ്രവേശനവും എക്സിറ്റ് മാനദണ്ഡവും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം വിവിധ ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവചക്രം മോഡൽ ചില മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ ഓരോഘട്ടവും ആരംഭിക്കുന്നു ഘട്ടം എൻട്രി മാനദണ്ഡം എന്ന നിലയിൽ ആ മാനദണ്ഡങ്ങൾ തൃപ്തിപെടുമ്പോൾ മാത്രമേ ഘട്ടം ആരംഭിക്കുകയുള്ളൂ ചില മാനദണ്ഡങ്ങൾ തൃപ്തിപ്പെടുബോൾ ഘട്ടം അവസാനിക്കുന്നു അതിനാൽ ഓരോ ഘട്ടത്തിലും ആ ഗ്രഹത്തിലേക്കുള്ള പ്രവേശന എക്സിറ്റ് മാനദണ്ഡങ്ങൾ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ ആവശ്യകത സവിശേഷ വിധത്തിലുള്ള ഘട്ടം എക്സിറ്റ് മാനദണ്ഡം എന്താണെന്ന് നമുക്ക് പറയാം എക്സിറ്റ് മാനദണ്ഡം ആവശ്യകത വ്യക്തമാക്കാൻ പ്രമാണം പൂർത്തിയാക്കിയിരിക്കണം അത് ഉപഭോക്താവ് അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഘട്ട പ്രവേശന മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ മാത്രമേ ഒരുഘട്ടം ആരംഭിക്കാൻ കഴിയൂ മറ്റൊരു പ്രധാന ആശയം മയിൽസ്റ്റോൺസ് പ്രോജക്ട് മാനേജർക്ക് ഒരു മയിൽസ്റ്റോൺസ് വളരെ പ്രധാനമാണ് സാധാരണ മയിൽസ്റ്റോൺസ് ഉപയോഗിച്ച് പ്രോജക്ട് മാനേജർ പദ്ധതിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നു വിവിധ തരത്തിലുള്ള മയിൽസ്റ്റോൺസ് ഉണ്ട് എന്നാൽ ഒരു പ്രധാന മയിൽസ്റ്റോൺസആണ് ഘട്ടം പ്രവേശനവും പുറത്തുകടക്കലും ഘട്ടം പ്രവേശന മാനദണ്ഡങ്ങൾ പാലിച്ച് അതിനുശേഷം ഒരു ഘട്ടം ആരംഭിക്കുമ്പോൾ ഒരു പ്രധാന മയിൽസ്റ്റോൺസ് നിറവേറ്റുന്നു അതുപോലെതന്നെ ഘട്ടം പൂർത്തിയാകുകയും എക്സിറ്റ് മാനദണ്ഡങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോൾ പദ്ധതി തീർച്ചയായും കുറച്ച് പുരോഗതി കൈവരിച്ചു അത് മറ്റൊരു സുപ്രധാന മയിൽസ്റ്റോൺസ് അയി മാറുന്നു ഈ ചർച്ചയിലൂടെ നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയും അടുത്ത പ്രഭാഷണത്തിൽ കുറച്ച് പ്രോജക്ട് ജീവിതചക്ര മാതൃകകൾ ചർച്ച ചെയ്യുകയും ചെയ്യും